ഹലോ എവെരിവൺ ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർdisaster recovery and build back better എന്ന ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാഷണം ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശുഭജ്യോതി സമദ്ദർ ആണ് ഞാൻ ദുരന്തസാധ്യതാ ആശയവിനിമയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും ദുരന്തസാധ്യതാ ആശയവിനിമയം വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം ദുരന്തങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികളോ തയ്യാറെടുപ്പുകളോ സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചു വീട് പുതുക്കിപ്പണിയുകയോ ഒഴിപ്പിക്കുകയോ ചെയ്യാം അതിനാൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യേണ്ടത് കാരണം ഭാവിയിലെ ദുരന്തങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് ഇതാണ് പ്രധാനമെന്നും ഞാൻ ഇത് ചെയ്യണമെന്നും അവർ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ രണ്ട് പാർട്ടികൾ ഉള്ളപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്ന് ആളുകൾക്ക് അപകടസാധ്യത അവബോധം വർധിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് അവിടുത്തെ ജനങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളവരാണ് ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും ആശയവിനിമയം നടത്തേണ്ടതുണ്ട് മറ്റ് പാർട്ടികളും ഉൾപ്പെടുന്നു അതിനാൽ ഈ പ്രക്രിയയെ ഞങ്ങൾ ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിച്ചു അതിനാൽ റിസ്ക് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്ന ഈ മുഴുവൻ പ്രക്രിയയുടെയും വിശദമായി നമുക്ക് നോക്കാം റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഓകെ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ പോലും ഞാൻ കൂടുതൽ വിശാലമായ വീക്ഷണകോണിൽ സംസാരിക്കുന്നു പ്രാദേശിക ഗവൺമെന്റിനെപ്പോലെ ഒരു അയക്കുന്ന ആളായിരിക്കണം ശരി നിങ്ങൾ മാറിപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ദുരന്തസാധ്യതാ ആശയവിനിമയത്തിൽ ആദ്യം ഉണ്ട് ഞങ്ങൾക്ക് ഒരു അയക്കുന്നയാളെ ആവശ്യമുണ്ട് അവർ എന്താണ് ചെയ്യുന്നത് അപകടസാധ്യതയെക്കുറിച്ചും ആളുകൾക്ക് എന്തുചെയ്യാനാകുമെന്നതിനെക്കുറിച്ചും അവർ സന്ദേശങ്ങൾ അയയ്ക്കുന്നു അതിനാൽ അയയ്ക്കുന്നവർ അവർ ആളുകൾക്ക് വിവരങ്ങൾ അയയ്ക്കുന്നു അവർ സ്വീകരിക്കുന്നവരാണ് അതിനാൽ ഒരു അയയ്ക്കുന്നയാളും ഒരു സ്വീകർത്താവും ഉണ്ടായിരിക്കണം മറ്റൊരു പ്രധാന ഘടകം തമ്മിലുള്ള സന്ദേശമാണ് അതിനാൽ അയച്ചയാളും സ്വീകർത്താവും വിവരങ്ങൾ കൈമാറണം ശരി ഈ രണ്ട് കക്ഷികൾക്കിടയിൽ വിവര കൈമാറ്റം നിർണായകമാണ് അതിനാൽ ഇത് റിസ്ക് ആശയവിനിമയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങിയ ദുരന്തസാധ്യതാ ആശയവിനിമയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ അവർ ആശയവിനിമയം നടത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോൾ രണ്ട് കക്ഷികൾ അയയ്ക്കുന്നവർ സ്വീകരിക്കുന്നവർ അവർ വിവരങ്ങൾ കൈമാറുന്നു എന്നാൽ എന്ത് ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് റിസ്ക് കമ്മ്യൂണിക്കേഷനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് അവർ പങ്കിടേണ്ടത് കൈമാറേണ്ടത് ഇത് ചില ഗോസിപ്പുകൾ പോലെയുള്ള നഗരത്തിലെ ചില ചർച്ചാ വിഷയമാണോ അതോ ദൈനംദിന ജീവിതമാണോ അവർ സഹപ്രവർത്തകരോ അയൽക്കാരോ അല്ലെങ്കിൽ ചില സഹപ്രവർത്തകരോ അവർ ചെയ്യുന്ന സഹ വിദ്യാർത്ഥികളോ അതോ എന്റെ കാര്യമോ ആവട്ടെ ഇത് എന്റെ മുടിവെട്ടിനെക്കുറിച്ചാണോ ഞാൻ എങ്ങനെ മനോഹരമായി കാണപ്പെടും അത് അതിനെക്കുറിച്ചാണോ അതോ എങ്ങനെ പാചകം ചെയ്യണം എന്ത് പാചകം ചെയ്യണം അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കോ സ്വീഡനിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഉള്ള എന്റെ യാത്രാ പദ്ധതി എന്നിവയെക്കുറിച്ചാണോ അതിനാൽ അവർ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് പങ്കിടുക എന്നത് ശരി അറിയാൻ വളരെ പ്രധാനമാണ് അതിനാൽ ഞങ്ങൾ അയയ്ക്കുന്നവരും സ്വീകരിക്കുന്നവരും തമ്മിൽ സംസാരിക്കുമ്പോൾ വിവരങ്ങൾ കൈമാറുക റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ ഹെയർസ്റ്റൈലിനെക്കുറിച്ചോ നിങ്ങളുടെ യാത്രാ പദ്ധതിയെക്കുറിച്ചോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചോ അവർക്ക് താൽപ്പര്യമില്ല റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾ വിവരങ്ങൾ കൈമാറുന്നുവെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചില പ്രത്യേക അപകടങ്ങളെയും അപകടസാധ്യതകളെയും കുറിച്ച് നേരിട്ടോ അല്ലാതെയോ സംസാരിക്കുന്നു ഇത് ഹൃദയസംബന്ധമായ പ്രശ്നമാകാം ഭൂഗർഭജലത്തിലെ ആർസെനിക് മലിനീകരണമാകാം അത് ആളുകൾക്ക് ക്യാൻസറിന് കാരണമാകാം അല്ലെങ്കിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ പലരെയും പോലെ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണമാകാം ഇക്കാലത്ത് ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണം 2011 ലെ ഭൂകമ്പത്തിലും സുനാമിയിലും നാശം വിതച്ച് ആണവ അപകടമുണ്ടായ ഫുകുഷിമ ആണവ നിലയമാകാം അതിനാൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അയയ്ക്കുന്നവരുണ്ട് അവർ സ്വീകർത്താക്കൾക്ക് വിവരങ്ങൾ കൈമാറുന്നു അവർക്ക് ഒരു സന്ദേശമുണ്ട് അവർക്ക് വിവരങ്ങളുടെ കൈമാറ്റമുണ്ട് ഈ വിവര കൈമാറ്റം അപകടസാധ്യതയെക്കുറിച്ചാണ് എന്നാൽ അയച്ചവർ വിവരങ്ങൾ കൈമാറുമ്പോൾ സ്വീകർത്താക്കൾക്ക് വിവരങ്ങൾ കൈമാറുമ്പോൾ ഒരു പ്രേരണയുണ്ട് ഈ പ്രേരണ എന്താണെന്ന് അറിയാമോ അവർ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയയ്ക്കുന്നയാൾ ഈ വിവരങ്ങൾ സ്വീകർത്താവിന് അയയ്ക്കുന്നുണ്ടെങ്കിൽ ദുരന്തസാധ്യതയുള്ള ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട് സ്വീകർത്താവിന്റെ മനസ്സ് ശരിയാക്കാനും അവന്റെ മനസ്സ് മാറ്റാനും ധാരണ മാറ്റാനും പെരുമാറ്റം മാറ്റാനും അയയ്ക്കുന്നയാൾ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിനാൽ അയച്ചയാൾ സ്വീകരിക്കുന്നയാൾക്ക് വ്യത്യസ്ത വീക്ഷണം വ്യത്യസ്തമായ പെരുമാറ്റം വ്യത്യസ്ത മനോഭാവം എന്നിവ ഉണ്ടായിരിക്കണം ഒരിക്കൽ അവർ അവരുമായി വിജയകരമായി ആശയവിനിമയം നടത്തും അതിനാൽ ഇത് വിവരങ്ങളുടെ കൈമാറ്റം മാത്രമല്ല സ്വീകർത്താവിനെ സ്വാധീനിക്കാൻ അയയ്ക്കുന്നയാൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റമാണ് അയയ്ക്കുന്നവരും സ്വീകരിക്കുന്നവരും തമ്മിലുള്ള വിവരങ്ങളുടെ ഉദ്ദേശ്യപരമായ കൈമാറ്റമാണ് അതിനാൽ മാധ്യമങ്ങൾ പോലുള്ള മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരസ്യം നൽകുമ്പോൾ അവർ നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ആഗ്രഹിക്കുന്നു എല്ലാ വശങ്ങളിലും നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ഈ മുദ്രാവാക്യം വളരെ വ്യക്തമാണ് ഉദ്ദേശം വളരെ വ്യക്തമാണ് നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾ സ്വാധീനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ ഒരു ഗോസിപ്പ് പോലെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നു എന്നല്ല ഇല്ല ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു കാരണം എനിക്ക് ഒരു കാരണവും ഉദ്ദേശവും ഉള്ളതിനാൽ നിങ്ങളുടെ മനസ്സ് ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ് അതിനാൽ ഞാൻ നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നതെന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ധാരണ അത് എന്താണ് അപകടസാധ്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തയ്യാറെടുപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഒഴിപ്പിക്കൽ ഉണ്ടായാൽ ചുഴലിക്കാറ്റ് വരുന്നതിനാൽ നിങ്ങൾ അപകടത്തിലാണെന്നും നിങ്ങൾ ഒഴിഞ്ഞുമാറണമെന്നും ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നു അതിനാൽ ആദ്യം എനിക്ക് നിങ്ങളോട് പറയണം ചുഴലിക്കാറ്റ് വരുന്നു അത് സത്യമാണ് നിങ്ങളുടെ തീരുമാനം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ദുരന്തസാധ്യതാ ആശയവിനിമയത്തിൽ ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റം വളരെ പ്രധാനമാണ് ഇപ്പോൾ വിവരങ്ങളുടെ ഉദ്ദേശ്യപരമായ കൈമാറ്റം അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള വിവരങ്ങൾ അവ ശബ്ദത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഞങ്ങൾ സന്ദേശം ഓകെ എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഒരു സ്വീകർത്താവ് അല്ലെങ്കിൽ വിവരദാതാവ് അവർ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകരെ ഒരു സ്പൂൺ ഫീഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് ശരിയാക്കണം എന്നതുപോലുള്ള അർത്ഥവത്തായ ലക്ഷണങ്ങളുള്ള ഒരു സംവിധാനത്തിലേക്ക് സ്വീകർത്താവിനെ തുറന്നുകാട്ടാൻ അവർ ഉദ്ദേശിക്കുന്നു ഞാൻ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ധാരണയെയോ അയച്ചയാളുടെ ചിത്രത്തെയോ മാറ്റിയേക്കാം ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റം അതിനാൽ ഒരു അയച്ചയാൾ അവിടെയുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ സ്വീകരിക്കുന്നയാളുടെ മനസ്സ് വഴിയിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു അവർ അപകടസാധ്യത മനസ്സിലാക്കി തയ്യാറെടുപ്പിനെക്കുറിച്ചുള്ള അവരുടെ മനോഭാവം അതിനാൽ റിസ്ക് കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനപരമായി പ്രാഥമികമായി നിർവചിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അപകടസാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഉദ്ദേശ്യപരമായ കൈമാറ്റം എന്നാണ് ഞങ്ങളുടെ സന്ദർഭത്തിൽ ഇത് ദുരന്തസാധ്യതയെക്കുറിച്ചാണ് കൂടുതൽ പക്ഷേ അത് ആരോഗ്യ അപകടമാകാം പാരിസ്ഥിതിക അപകടമാകാം മറ്റ് അപകടസാധ്യതകൾ ആകാം അതിനാൽ താൽപ്പര്യമുള്ള കക്ഷികൾക്കിടയിൽ ഏതുമാകാം അതിനാൽ രണ്ട് താൽപ്പര്യമുള്ള കക്ഷികളുണ്ട് ഒരാൾ അയച്ചയാളാണ് ഒരാൾ സ്വീകർത്താവാണ് അവർ ഒരു പ്രത്യേക ദുരന്തം അല്ലെങ്കിൽ പ്രത്യേക അപകടസാധ്യതയാൽ ബാധിക്കപ്പെട്ടവരാണ് അവർക്ക് ഒരു വിവര കൈമാറ്റം ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റം എന്നിവയുണ്ട് അയയ്ക്കുന്നയാൾ സ്വീകരിക്കുന്നവരുടെ മനസ്സ് മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇതാണ് റിസ്ക് കമ്മ്യൂണിക്കേഷനുകൾക്ക് നിരവധി നിർവചനങ്ങൾ ഉണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ധാരാളം നിർവചനങ്ങൾ ഉണ്ട് എന്നാൽ ലളിതമാക്കുന്നതിന് ഞങ്ങളുടെ കോഴ്സിന് കൂടുതൽ പ്രസക്തമായ ഒന്ന് എടുക്കാം ഇവിടെ കോവെല്ലോ വോൺ സ്ലോവിക്ക് എന്നിവരും മറ്റുള്ളവരും അവരുടെ പഠനത്തിൽ നൽകിയത് ഞങ്ങൾ എടുത്തു താൽപ്പര്യമുള്ള കക്ഷികൾ തമ്മിലുള്ള ആരോഗ്യം പാരിസ്ഥിതിക അപകടസാധ്യത എന്നിവയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഉദ്ദേശ്യത്തോടെയുള്ള വിവര കൈമാറ്റമാണ് റിസ്ക് ആശയവിനിമയം എന്ന് അവർ പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് പരിസ്ഥിതി അപകടമോ ആരോഗ്യ അപകടമോ മാത്രമല്ല അത് ദുരന്ത അപകടസാധ്യത കൂടിയാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്നത് കക്ഷികൾക്കിടയിൽ വിവരങ്ങൾ കൈമാറുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള ഒരു പ്രവർത്തനമാണ് അതിനാൽ ഇത് രണ്ട് കക്ഷികൾക്കിടയിൽ ചില അർത്ഥവത്തായ വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവ ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റമാണ് ശരി അവർ അത് ചെയ്യുന്നു അയച്ചവരും സ്വീകരിക്കുന്നവരും റിസ്ക് കമ്മ്യൂണിക്കേഷനുകളിൽ അവർ എന്താണ് സംസാരിക്കുന്നത് ആ വിവര കൈമാറ്റത്തിന്റെ ഉള്ളടക്കം എന്തെല്ലാമാണ് ഞങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ അവർ ശരിക്കും എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം അപകടസാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അപകടസാധ്യത വളരെ രസകരമായ ഒരു വാക്കാണ് വളരെ വളരെ തമാശയുള്ള വാക്കാണ് ആരാണ് അപകടസാധ്യതയുള്ളതെന്ന് അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നു ഏത് ആവാസവ്യവസ്ഥയെ അത് തടസ്സപ്പെടുത്തും ഈ നഗരത്തിലെ ഭൂകമ്പം കാരണം വെള്ളപ്പൊക്കം കാരണം നിങ്ങൾ അപകടത്തിലാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ ഞാൻ ആകും എന്നതിന്റെ അർത്ഥമെന്താണ് ആരാണ് എനിക്ക് കുഴപ്പമില്ല ആരാണ് നിങ്ങൾ എന്ന് അവർ പറഞ്ഞു അതിനാൽ ആരാണ് എത്രത്തോളം ഇതും ഈ സെറ്റിൽമെന്റും ഈ ആളുകളെയും ബാധിക്കുമെന്ന് നിങ്ങൾ നിർവചിക്കേണ്ടതുണ്ട് അതുപോലെ അപകടസാധ്യതയെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത ധാരണകളുണ്ട് അതിനാൽ അറിയേണ്ടത് വളരെ പ്രധാനമാണ് 1957 മുതൽ നമ്മുടെ പട്ടണത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്നൊരു വാർത്തയുണ്ടെങ്കിൽ ഈ വാർത്തയോ കേവലം ഈ വാർത്തയോ അപകടസാധ്യതയെക്കുറിച്ചുള്ള ഈ ആശയമോ ആകാം ആളുകൾക്ക് രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ആദ്യ വ്യക്തി നിങ്ങൾ മധ്യഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നോക്കുന്നതിനുള്ള ശുഭാപ്തിവിശ്വാസത്തിന്റെ നിർവചനം ഞങ്ങൾ എന്നേക്കും സുരക്ഷിതരാണ് ശരി അതിനാൽ 1957 മുതൽ ഞങ്ങളുടെ നഗരത്തിൽ ഒരു കൊലപാതകവും നടന്നിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ എന്നേക്കും സുരക്ഷിതരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾ വേണ്ടത്ര സുരക്ഷിതരാണെന്ന് അനുമാനിക്കാൻ ന്യായമായും മതി എന്നാൽ മറുവശത്ത് ഒരു അശുഭാപ്തിവിശ്വാസി ഞങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു അതിനർത്ഥം എന്തോ ഇവിടെ വരുന്നു ഒരുപക്ഷേ അടുത്തത് ഞാനായിരിക്കാം അതിനാൽ അവർ വളരെ നിഷേധാത്മകമായ രീതിയിലാണ് കാണുന്നത് അതിനാൽ ഉത്തേജനം അവിടെയുണ്ട് ഒന്നുതന്നെയാണ് എന്നാൽ രണ്ട് ആളുകൾക്ക് ഉത്തേജക സംഭവത്തിന്റെ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളോ വ്യാഖ്യാനങ്ങളോ ഉണ്ട് അതുപോലെ അപകടസാധ്യതയുടെ കാര്യത്തിൽ ആളുകൾക്ക് വ്യത്യസ്ത ചിന്താഗതിയുടെ വ്യത്യസ്ത ചിന്താഗതിയുണ്ട് ഇവിടെ ഈ ചിത്രത്തിൽ നോക്കൂ ഈ ബോട്ട് അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് കാണാം എന്നാൽ മറുവശത്തുള്ള വ്യക്തി ഞങ്ങൾ സുരക്ഷിതരല്ലെന്ന് കരുതുന്നു അവൻ അതേ ബോട്ടിലാണ് പക്ഷേ ശരി ഞാൻ അപകടത്തിലല്ലെന്ന് അവൻ കരുതുന്നു ദ്വാരം എന്റെ വശത്തല്ല മറ്റേ അറ്റത്താണ് അതിനാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തുറന്നുകാട്ടപ്പെടില്ല എന്നെ ബാധിക്കില്ല അതിനാൽ ആരെയാണ് ബാധിക്കുക എങ്ങനെ ബാധിക്കപ്പെടും എന്നത് ആളുകൾക്ക് വളരെ പ്രധാനമാണ് അതിനാൽ വിവരങ്ങളുടെ കൈമാറ്റം അതിന്റെ ഉള്ളടക്കത്തിന്റെ അർത്ഥമെന്താണ് ഏത് തരത്തിലുള്ള ഉള്ളടക്കമാണ് അവർ ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അവർ അപകടസാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ എന്താണ് അപകടത്തിന്റെ ഏത് ഘടകത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നത് ശരിയാണ് അതിനാൽ എത്ര പേർ ഭൂകമ്പം വരുന്നു നിങ്ങളുടെ നഗരങ്ങളിൽ വെള്ളപ്പൊക്കം വരുമെന്ന് ഞങ്ങൾ സംസാരിച്ചുവെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അത് നമ്മളിൽ എങ്ങനെ എത്രപേരെ ബാധിക്കുമെന്ന് എനിക്ക് അറിയണം നിങ്ങൾ ഒരു ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നഗരത്തെയും ബാധിക്കുമോ അതോ ഏതെങ്കിലും പ്രത്യേക അയൽപക്കത്തെയോ പ്രത്യേക വാർഡിനെയോ ബാധിക്കുമോ ഒരു നഗരത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു പ്രത്യേക ജനവാസ കേന്ദ്രത്തെ ബാധിക്കുമെന്ന് ആളുകൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് അതിനാൽ അവരിൽ എത്രപേരെ ബാധിക്കും എന്നത് നമ്മൾ റിസ്ക് ആശയവിനിമയം നടത്തുമ്പോൾ ആളുകളോട് പറയേണ്ടത് വളരെ പ്രധാനമാണ് വളരെ രസകരമായ ഒരു ഡാറ്റ ഇതാ വളരെ രസകരമായ ഡാറ്റ തീർച്ചയായും ഇത് ദുരന്തവുമായി ബന്ധപ്പെട്ടതല്ല എന്നാൽ യുഎസിൽ എച്ച്ഐവി ബാധിതരായ 8 ൽ 1 പേർക്ക് അവർക്കറിയില്ല അവർ രോഗബാധിതരാണെന്ന് അവർക്കറിയില്ലെന്നാണ് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അതിനാൽ എച്ച്ഐവി ബാധിതരായ 8 ൽ ഒരാൾക്ക് തങ്ങൾ രോഗബാധിതരാണെന്ന് അവർക്കറിയില്ല അതിനാൽ എത്ര ആളുകളെ ബാധിക്കും എത്രത്തോളം നിർണായകമായ ഒരു പ്രധാന റിസ്ക് ആശയവിനിമയം നൽകണം അത് എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം മാത്രമല്ല ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു അത് എന്നെ എങ്ങനെ തടസ്സപ്പെടുത്തും ഇത് എത്രത്തോളം തുടരും അവൾ പുകവലിക്കുന്നതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ നൽകുന്നത് ദുരന്ത സന്ദർഭത്തിൽ മാത്രമല്ല അത് സഹായിക്കും അപകടസാധ്യതയും അപകടസാധ്യതയുള്ള ആശയവിനിമയവും മനസ്സിലാക്കുന്നതിനുള്ള വിശാലമായ വീക്ഷണം ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ അവൾ പുകവലിക്കുന്നു അതിനാൽ പുകവലിക്കരുതെന്ന് നമുക്ക് അവളെ നിരുത്സാഹപ്പെടുത്താം ഇപ്പോൾ ചോദ്യം ഞങ്ങൾ പുകവലി നിർത്താൻ കഠിനമായി ആശയവിനിമയം നടത്തുമ്പോൾ ശരി പുകവലിക്കുന്ന പലരെയും എനിക്കറിയാം പക്ഷേ അവർ സുഖമായിരിക്കുന്നു എന്ന ധാരണയിലാണ് അവൾ പക്ഷേ പുകവലിക്കാത്ത നിരവധി ആളുകളെ എനിക്കറിയാം പക്ഷേ അവർ ക്യാൻസർ ബാധിച്ചവരാണ് അതിനാൽ പുകവലിക്കുന്നവരെ മാത്രമേ കാൻസർ ബാധിക്കുകയുള്ളൂ എന്നല്ല പുകവലിക്കാത്തവർക്കും കാൻസർ ബാധിക്കാം അതിനാൽ ആളുകൾ ഈ ഡാറ്റയും ഈ വസ്തുതയും എങ്ങനെ എടുക്കുന്നു അവയെ വ്യാഖ്യാനിക്കുന്നത് ഒരു നിർണായക ചോദ്യമാണ് അതിനാൽ ഞങ്ങൾ അപകടസാധ്യതയെക്കുറിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ ദുരന്തങ്ങൾ എത്രത്തോളം എത്രത്തോളം അവരെ തടസ്സപ്പെടുത്തും എന്ന് ആളുകളോട് പറയേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ അവരെ എങ്ങനെ ജോലിക്കെടുക്കും എത്രത്തോളം എത്രകാലം ഉപദ്രവം തുടരും എന്നത് പ്രധാനമാണ് ഈ കാർട്ടൂണിൽ നമ്മുടെ പൌരന് ലഭിക്കുന്ന റേഡിയേഷൻ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു എക്സ് റേ മാത്രമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ആരെങ്കിലും ഫുകുഷിമയെക്കുറിച്ചോ മറ്റ് ആണവ അപകടത്തെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടാകാം അവർ റേഡിയേഷൻ ആഘാതത്തെക്കുറിച്ച് ആശങ്കാകുലരായിരിക്കാം അതിനാൽ ഈ സർക്കാർ ആളുകൾ ജപ്പാൻ സർക്കാർ ആളുകൾ ഒരു കാർട്ടൂണിൽ പറയുന്നു റേഡിയേഷൻ ആളുകൾ തുറന്നുകാട്ടപ്പെടുന്ന രീതി യഥാർത്ഥത്തിൽ അവർ തുറന്നുകാട്ടുന്ന രീതിയെക്കാൾ കുറവാണ് എക്സ് റേ ചെയ്യുന്നു അതിനാൽ അപകടത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളത് ഇങ്ങനെയാണ് അതിനാൽ റിസ്ക് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ താൽപ്പര്യമുള്ള കക്ഷികൾ തമ്മിലുള്ള ആരോഗ്യത്തെക്കുറിച്ചോ പാരിസ്ഥിതിക അപകടത്തെക്കുറിച്ചോ ഉള്ള ഏതെങ്കിലും ഉദ്ദേശ്യത്തോടെയുള്ള വിവര കൈമാറ്റമാണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് കൂടുതൽ വ്യക്തമായി അത് കക്ഷികൾക്കിടയിൽ എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഒന്ന് അവർ എന്താണ് സംസാരിക്കുക എന്നതാണ് ലെവൽ ഓകെ ഇത് അപകടസാധ്യതയുടെ ലെവൽ ആളുകളെ എത്രത്തോളം ബാധിക്കും അപകടസാധ്യതയുടെ പ്രാധാന്യവും അർത്ഥവും പ്രധാന ഉള്ളടക്കമാണ് പക്ഷേ അപകടസാധ്യതയുടെ തോത് മാത്രം പറഞ്ഞാൽ മതിയോ എത്രത്തോളം അപകടസാധ്യതയാണ് അവർ നേരിടുന്നതെന്നും അതിൽ എന്ത് അപകടസാധ്യതയാണ് ആസന്നമായിരിക്കുന്നതെന്നും റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ഇത് മതിയാകുമോ ഇല്ല അടിസ്ഥാനപരമായി ഇല്ല എന്തുകൊണ്ട് ഇല്ല ഞങ്ങൾക്ക് അപകടസാധ്യത വിശകലനവും അപകടസാധ്യതയുള്ള ധാരണകളും ഉണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് റിസ്ക് മാനേജ്മെന്റിലേക്ക് നോക്കുന്നത് അതിനാൽ ഇതിലേക്ക് നോക്കൂ ആദ്യം ആ അപകടസാധ്യത വിശകലനം ചെയ്യുന്ന ചില ശാസ്ത്രീയ വശങ്ങൾ ആവാം പക്ഷേ ആളുകൾക്ക് അവരുടെ സ്വന്തം ധാരണകളുണ്ട് കാരണം ആളുകൾ വ്യത്യസ്ത അപകടസാധ്യതകളെ വ്യത്യസ്ത രീതികളിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന് ഞാൻ ഉദാഹരണം നൽകി പക്ഷേ നിങ്ങൾ കേവലം ചെവി വെച്ചാൽ ഈ അപകടസാധ്യത കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഇവ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അതിനാൽ നിങ്ങൾ അപകടസാധ്യതയുള്ള ആളുകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടെന്നും എന്നാൽ അപകടസാധ്യതയുള്ള ആശയവിനിമയമുണ്ടെന്നും ഞങ്ങൾ അവരോട് പറയുന്നുവെന്ന് കരുതുക അവർ മാത്രമേ ഈ അപകടസാധ്യതയെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ പറയുന്നുള്ളൂ ഇത് പോരാ അവർക്ക് എന്തുചെയ്യാൻ കഴിയും എന്ത് നടപടികളും പ്രവർത്തനങ്ങളും സ്വയം പരിരക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പും സ്വീകരിക്കാമെന്നും നമ്മൾ അവരോട് പറയണം അതിനാൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അവർക്ക് സ്വയം പരിരക്ഷിക്കാൻ മേശയ്ക്കടിയിലോ ഫർണിച്ചറുകളിലോ പോകാം അതിനാൽ അവർക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു ലളിതമായ ഉദാഹരണം മാത്രമാണ് ഇത് ഈ സന്ദേശം ജനങ്ങൾക്ക് നൽകണം സുനാമി ഉണ്ടായാൽ ശരി സുനാമി വരുമെന്ന് ഞങ്ങൾ ആളുകളോട് പറയും എന്നാൽ ഈ വിവരങ്ങൾ പോരാ അത് അപൂർണ്ണമായ വിവരമാണ് ഈ ആളുകൾ കാണിക്കുന്നത് പോലെ ഉയർന്ന സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ ഉയർന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ അവരോട് പറയണം അതിനാൽ റിസ്ക് കമ്മ്യൂണിക്കേഷൻസ് എന്നത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ചർച്ചയെക്കുറിച്ചുള്ള ഉള്ളടക്കമാണ് ഒന്ന് അപകടത്തിന്റെ തോത് ശരിയും പ്രാധാന്യവും അപകടസാധ്യതയുടെ അർത്ഥവും കൂടാതെ ഇത് അപകടസാധ്യത നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുള്ള തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ നയങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അതിനാൽ ഈ 3 ഘടകങ്ങൾ അപകടസാധ്യതയുള്ള ആശയവിനിമയത്തിന്റെ പ്രധാന വശമാണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ നിർവചനങ്ങളെയും പ്രധാന ആശയങ്ങളെയും കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു റിസ്ക് കമ്മ്യൂണിക്കേഷനുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമ്മൾ ശരിക്കും എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് അയച്ചയാളും സ്വീകർത്താവും ഉണ്ട് അയയ്ക്കുന്നയാൾ സ്വീകർത്താവിന് സന്ദേശം അയയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് കോഡിംഗിലൂടെയും ഡീകോഡിംഗിലൂടെയും അയയ്ക്കാൻ കഴിയും ഈ വശം നമുക്ക് പിന്നീട് മറ്റൊരു പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യാം എന്നാൽ ഇത് സംസാരിക്കുക എഴുത്ത് ഗ്രാഫിക്സ് വീഡിയോകൾ എന്നിവയിലൂടെ വ്യത്യസ്ത ചാനലുകളിലൂടെ അയയ്ക്കണം ഈ പ്രക്രിയയിൽ കോഡിംഗിന്റെയും ഡീകോഡിംഗിന്റെയും പങ്കാളിത്തമുണ്ട് എന്തായാലും അയക്കുന്നയാൾ ശരി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുമായി ആശയവിനിമയം നടത്തണം എന്നതാണ് പ്രധാനം അതിനാൽ അയച്ചയാൾ 6 എന്ന് പറയുകയും സ്വീകർത്താവ് 9 ആയി കാണുകയും ചെയ്താൽ അത് വ്യത്യസ്തമാണ് അയയ്ക്കുന്നയാൾ 5 അയയ്ക്കുന്നുവെന്ന് പറയട്ടെ ഇത് 5 ആണ് സ്വീകർത്താവ് അതിനെ എസ് ആയി ഡീകോഡ് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അയച്ചയാളെക്കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് റിസ്ക് ആശയവിനിമയങ്ങളിൽ പ്രധാനമാണ് ഞാൻ 6 അയയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അത് 9 ആയി പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ അയയ്ക്കുന്നത് 5 ആണെങ്കിൽ നിങ്ങൾ അത് എസ് ആയി കണക്കാക്കുകയാണെങ്കിൽ അത് ശരിയായി പ്രവർത്തിക്കില്ല അത് പ്രവർത്തിക്കില്ല അതിനാൽ ഞങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വൃക്ഷം എന്ന് പറയണമെങ്കിൽ കോഡിംഗ് ട്രീ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ശരി അതിനാൽ കോഡിംഗിനും ഡീകോഡിംഗിനും ശേഷം അയച്ചയാളിൽ നിന്ന് റിസീവറിലേക്ക് സന്ദേശം അയയ്ക്കുന്നത് ഒരേ അർത്ഥമായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഒരേ അർത്ഥമായിരിക്കണം ഫലപ്രദമായ റിസ്ക് ആശയവിനിമയത്തിന് ഈ ഘടകം ഉണ്ടായിരിക്കണം ഇവിടെ പോലെ നിങ്ങൾ വളരെ രസകരമായ ഈ കാർട്ടൂണിലേക്ക് നോക്കൂ ഈ സ്ത്രീ ഈ വ്യക്തിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടയുടെ 40 മാത്രം മൂടിയിരിക്കുന്നത് ഇന്ന് എനിക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചതിനാലും 40 മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാലാണ് എന്റെ കുടയുടെ 40 മാത്രം മൂടിയിരിക്കുന്നതെന്നും ഈ വ്യക്തി ഉത്തരം നൽകുന്നു അതിനാൽ ഇത് വളരെ രസകരമാണ് അതിനാൽ അയച്ചയാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നയാൾ വ്യാഖ്യാനിക്കുന്നതും തികച്ചും വ്യത്യസ്തമാണ് അവ ശരിയാണെങ്കിലും അവ ഒന്നുതന്നെയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും വെല്ലുവിളികളും ശാരീരിക വെല്ലുവിളികളും ഉണ്ടെങ്കിൽ തീപിടിത്തം ഉള്ളതിനാൽ അപകടസാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ അവനോട് പറയുന്നത് അത് തീയിലായതിനാൽ ഗോവണി ഉപയോഗിക്കരുതെന്നാണ് അപ്പോൾ അവൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യണോ അതിനാൽ റിസ്ക് ആശയവിനിമയത്തിന്റെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ എല്ലാ സ്വീകർത്താക്കളും സന്ദേശത്തിന്റെ എല്ലാ സ്വീകർത്താക്കളും അവർക്ക് അയച്ച സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനും ഡീകോഡ് ചെയ്യാനും പ്രാപ്തരാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് നിർണായക ലക്ഷ്യങ്ങളിലൊന്ന് അതിനാൽ അയയ്ക്കുന്നവർ സ്വീകർത്താവിന് സന്ദേശം അയയ്ക്കുമ്പോൾ അയച്ചയാൾ ശരി അയച്ചതിന്റെ അർത്ഥം മനസിലാക്കാനും ഡീകോഡിഫൈ ചെയ്യാനും അവർക്ക് കഴിയണം സന്ദേശം വളരെ വ്യക്തമായിരിക്കണം രണ്ടാമത്തെ ലക്ഷ്യം അയയ്ക്കുന്നവർ സ്വീകർത്താവിന് ഒരു പ്രത്യേക അപകടസാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരുതരം തയ്യാറെടുപ്പ് സന്ദേശത്തെക്കുറിച്ചോ എന്തെങ്കിലും സന്ദേശം അയയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വ്യക്തിയുടെ മനോഭാവം ശരിയാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു മനോഭാവം മാറുന്നത് അപകടസാധ്യതയുള്ള ആശയവിനിമയത്തിന്റെ നിർണായക ഘടകമാണ് അതിനാൽ വിവരങ്ങൾ അയയ്ക്കുമ്പോൾ അയയ്ക്കുന്നവർ അവൻ അല്ലെങ്കിൽ അവൾ സ്വീകർത്താവിന്റെ മനസ്സ് മാറ്റാനും അവരുടെ മനോഭാവം മാറ്റാനും ആഗ്രഹിക്കുന്നു സന്ദേശം സ്വീകരിക്കുന്നവരെ അവരുടെ മനോഭാവവും പെരുമാറ്റവും മാറ്റാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊരു പ്രധാന വശം അയച്ചയാൾ സ്വീകർത്താവിന് വിവരങ്ങൾ അയയ്ക്കുമ്പോൾ സ്വീകർത്താവിന് അതേ സമയം അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അയച്ചയാളോട് എന്താണ് ചോദ്യങ്ങൾ ആശങ്കകൾ എന്നിവ ഫീഡ്ബാക്ക് ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ഉച്ചകോടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമയോഗത്തിലോ നമ്മുടെ ആശങ്കകൾ പങ്കിടാം എന്നതുപോലെ ഇത് കൂടുതൽ ജനാധിപത്യപരമായ പരസ്പരവിരുദ്ധ പ്രക്രിയയിലായിരിക്കണം അതിനാൽ അപകടസാധ്യതയുള്ള ആശയവിനിമയത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് അപകടസാധ്യതയുള്ള വിഷയങ്ങളിൽ യുക്തിസഹമായ വ്യവഹാരത്തിന്റെ ഒരു വ്യവസ്ഥ നൽകുക എന്നതാണ് അതിലൂടെ എല്ലാ ബാധിത കക്ഷികൾക്കും സംഘട്ടന പരിഹാരങ്ങളിൽ ഫലപ്രദവും ജനാധിപത്യപരവുമായ രീതിയിൽ പങ്കെടുക്കാൻ കഴിയും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കിടാനും ഈ വൈരുദ്ധ്യം പരിഹരിക്കാനും സമവായത്തിലോ യോജിച്ച തീരുമാനങ്ങളിലോ എത്തിച്ചേരാനും കഴിയും ഇന്നത്തെ പ്രഭാഷണത്തിനും ഈ പ്രഭാഷണത്തിനും അത്രയേയുള്ളൂ അതിനാൽ വളരെ നന്ദി